ഒരു നിശ്ചിത കറന്റ് I0 ൽ നാല് വിവിധ തരം ബയാസിംഗ് ട്രാൻസിസ്റ്ററിനെക്കുറിച്ച് നമ്മൾ ചർച്ചചെയ്തു ഈ സർക്യൂട്ടുകളുടെ കേന്ദ്രം നെഗറ്റീവ് ഫീഡ്ബാക്കാണ് ഇതുവരെ നമ്മുടെ ചർച്ച നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ അർത്ഥത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു നിങ്ങൾ ഇവ ഒരു ആംപ്ലിഫയറിൽ ഉപയോഗിക്കുമ്പോൾ ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ മേഖലയിലായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനർത്ഥം നിങ്ങൾ ഫീഡ്ബാക്ക് ശരിയായി നേടണം അതുപോലെ തന്നെ ബയസ് വോൾട്ടേജുകളും ശരിയായിരിക്കണം അതിനാൽ ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ തുടരും ഇപ്പോൾ ഈ പ്രശ്നങ്ങളിൽ ചിലത് ഞങ്ങൾ ചർച്ച ചെയ്യും ഒരു ബയാസ് ക്രമീകരിക്കുന്ന നാല് തരങ്ങളും ഞാൻ കാണിക്കും ആദ്യത്തേത് ഡ്രെയിൻ സെൻസ് ചെയ്തു ഗേറ്റിലേക്ക് ഫീഡ്ബാക്ക് നൽകുന്നതാണ് ഗേറ്റിലേക്കുള്ള ഫീഡ്ബാക്ക് പോസിറ്റീവ് ഇൻക്രെമെന്റൽ ഗെയിൻ വഴി ആകണം നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും തീർച്ചയായും നമ്മൾ ഉപയോഗിച്ച വേരിയന്റിൽ പോസിറ്റീവ് ഇൻക്രെമെന്റൽ ഗെയിൻ നേരിട്ട് കണക്റ്റു ചെയ്യുന്നതും ഉൾപ്പെടുന്നു ഇവിടെ ഈ സർക്യൂട്ട് പോസിറ്റീവ് ഇൻക്രിമെന്റൽ ഗെയിൻ മറ്റും വിവരിക്കാൻ ഞാൻ ഗെയിൻ എന്ന പദം ഉപയോഗിക്കുന്നു ഇത് ശരിക്കും ആംപ്ലിഫിക്കേഷൻ നൽകണമെന്ന് ഞാൻ അർത്ഥമാക്കുന്നില്ല ഔട്ട്പുട്ടിലെ വ്യതിയാനം ഇൻപുട്ടിനേക്കാൾ കൂടുതലായിരിക്കേണ്ടതില്ല അത് കുറവാണെങ്കിൽപ്പോലും ഇതിന് പ്രവർത്തിക്കാനാകും ഈ ബ്ലോക്കിനായി ഇൻപുട്ട് വൈവിധ്യമാർന്നതിനാൽ ഔട്ട്പുട്ടിന്റെ വ്യതിയാനമാണ് ഞാൻ ശരിക്കും അർത്ഥമാക്കുന്നത് അതിനാൽ ഈ രണ്ട് സർക്യൂട്ടുകളും തുല്യമാണ് അവിടെ ഈ പോസിറ്റീവ് ഇൻക്രിമെന്റൽ ഗെയിൻ വയർ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്നു ഒരു നിശ്ചിത വോൾട്ടേജ് VG0 ൽ ഗേറ്റ് ബയാസ് ചെയ്തു സോഴ്സ് സെൻസ് ചെയ്യുന്നതും സോഴ്സിൽ ഫീഡ്ബാക്ക് നൽകുന്നതും നമ്മൾ പരിശോധിച്ചു അതിനാൽ ശരിക്കും അർത്ഥമാക്കുന്നത് എനിക്ക് ഒരു വോൾട്ടേജ് സോഴ്സ് VG0 ഉണ്ടെന്നാണ് അല്ലെങ്കിൽ ഇത് ഒരു വോൾട്ടേജ് ഡിവൈഡറിൽ നിന്ന് ലഭിച്ചതാണ് എനിക്ക് ഇവിടെ I0 ഉണ്ട് തുടർന്ന് ഞങ്ങൾ ഡ്രെയിൻ സെൻസിംഗ് ചെയ്ത് സോഴ്സിലേക്ക് ഫീഡ്ബാക്ക് നൽകുന്നത് നോക്കി അവിടെ ഞങ്ങൾ കറന്റ് സോഴ്സ് ഡ്രെയിനിലേക്ക് ബന്ധിപ്പിക്കുന്നു VG0 ൽ ഗേറ്റ് ബയാസ് ചെയ്തിരിക്കുന്നു കൂടാതെ ഒരു ഓപ് ആംപ് ഉപയോഗിക്കുന്നതാണ് ഒരു ഉദാഹരണം പൊതുവേ ഈ ഭാഗം ഞാൻ ചുവപ്പിൽ കാണിക്കാം ഇത് നെഗറ്റീവ് ഇൻക്രിമെന്റൽ ഗൈൻ ഉള്ള ഏത് സർക്യൂട്ടും ആകാം അവസാനമായി നമ്മൾ സോഴ്സ് സെൻസ് ചെയ്തു ഗേറ്റിലേക്ക് തിരികെ നൽകി സർക്യൂട്ട് ഇതുപോലെ കാണപ്പെടുന്നു നമ്മൾ എടുത്ത ഉദാഹരണമാണിത് ഇതിനെ ഞാൻ VS0 എന്ന് വിളിക്കുന്നു അതിനർത്ഥം ഇത് VS0 ന്റെ വോൾട്ടേജ് സോഴ്സ് മൂല്യവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും VS0 ൽ ബയസ് ചെയ്തിരിക്കുന്നു പൊതുവേ ഇവിടെയുള്ള സർക്യൂട്ട് നെഗറ്റീവ് ഇൻക്രിമെന്റൽ ഗൈൻ ഉള്ള ഏത് സർക്യൂട്ടും ആകാം അതിനാൽ ഇതാണ് ആശയം ഇപ്പോൾ നിങ്ങൾ ഇത് ചെയ്തുകഴിഞ്ഞാൽ തീർച്ചയായും ഈ പോസിറ്റീവ് ഇൻക്രിമെന്റൽ നേട്ടത്തിന് അല്ലെങ്കിൽ ഈ നെഗറ്റീവ് ഇൻക്രിമെന്റൽ നേട്ടങ്ങൾക്കും ഈ ബയസ് വോൾട്ടേജുകളായ VD0 VS മുതലായവയ്ക്കും നിരവധി മോഡലുകൾ സാധ്യമാണ് അതിനുശേഷം നിങ്ങൾ പ്രത്യേകം പരിശോധിക്കുകയും ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ ഉണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം അതായത് VDS VGS VT നേക്കാൾ കൂടുതലാണ് അതിനാൽ ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾക്കായി കാണിക്കും കൂടാതെ അസൈൻമെന്റ് പ്രശ്നങ്ങളിൽ നിന്നോ പരിശീലന പ്രശ്നങ്ങളിൽ നിന്നോ നിങ്ങൾക്ക് ഇത് സ്വയം കാണാൻ കഴിയും കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഉദാഹരണങ്ങൾ പോലും സൃഷ്ടിക്കാൻ കഴിയും അതിനാൽ ഒന്നാമതായി ഒരു MOS ട്രാൻസിസ്റ്ററിന്റെ സാച്ചുറേഷൻ നിർവചിച്ചിരിക്കുന്നത് ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് VDS VGS VT നേക്കാൾ വലുതാണ് ഇത് ഇടുന്നതിന് മറ്റ് നിരവധി മാർഗങ്ങളുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് VDS VGS കണക്കാക്കാൻ കഴിയുമ്പോൾ ഇത് ഉപയോഗിക്കാൻ സൌകര്യപ്രദമാണ് ഇപ്പോൾ VDS നെ VD VS എന്നും എഴുതാം അവിടെ VD VS ഗ്രൌണ്ടിന് ആനുപാതികമായ ഡ്രെയിൻ വോൾട്ടേജും സോഴ്സ് വോൾട്ടേജുമാണ് അതുപോലെ VGS നെ VG VS എന്ന് എഴുതാം അവിടെ VG VS ഒരേ ഗ്രൌണ്ട് VT മായി ബന്ധപ്പെട്ട ഗേറ്റും സോഴ്സ് വോൾട്ടേജുകളും ആണ് ഇവിടെ VS ഇല്ലാതാകുന്നു മാത്രമല്ല ഇതേ കാര്യം VD VG VT യേക്കാൾ കൂടുതലാണെന്ന രീതിയിൽ തുല്യമായി എഴുതാമെന്നും ഇവിടെ വ്യക്തമായി കാണുന്നു അതു എന്തു പറയുന്നു VDS കണക്കുകൂട്ടുന്നതിനുപകരം നിങ്ങൾക്ക് ഡ്രെയിൻ വോൾട്ടേജിനെ ഗേറ്റ് വോൾട്ടേജുമായി താരതമ്യം ചെയ്യാം ഇത് എന്താണ് ഡ്രെയിൻ വോൾട്ടേജ് ഗേറ്റ് വോൾട്ടേജ് മൈനസ് VT യേക്കാൾ കൂടുതലായിരിക്കണം കൂടാതെ VT പൊതുവേ നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ആകാം എന്നിരുന്നാലും മിക്കപ്പോഴും ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്ററിന് ഇത് പോസിറ്റീവ് ആണ് അതിനാൽ VT പോസിറ്റീവ് ആണെന്ന് കരുതി നമ്മൾ ചർച്ച തുടരും അതിനാൽ ഇത് എന്താണ് പറയുന്നത് ഡ്രെയിൻ വോൾട്ടേജ് ഗേറ്റ് വോൾട്ടേജിനേക്കാൾ താഴെയാകാം പക്ഷേ VT യേക്കാൾ ഒന്ന് കൂടുതൽ ആകരുത് അതിനാൽ ട്രയോഡ് മേഖലയിലേക്ക് ട്രാൻസിസ്റ്റർ പോകുന്നത് ദൃശ്യവൽക്കരിക്കുന്നതിനുള്ള ഒരു മാർഗ്ഗം തീർച്ചയായും വോൾട്ടേജിന്റെ അടിസ്ഥാനത്തിൽ ഡ്രെയിനും സോഴ്സും തമ്മിലുള്ള ഈ വേർതിരിവ് സങ്കൽപ്പിക്കുക എന്നതാണ് ഡ്രെയിനും സോഴ്സും തമ്മിലുള്ള വോൾട്ടേജ് വ്യത്യാസം വളരെ ചെറുതായി മാറുന്നു അതിനാൽ സോഴ്സിന്റെ അതേ വോൾട്ടേജിൽ നിങ്ങൾക്ക് ഡ്രെയിൻ ഉണ്ടെങ്കിൽ VDS പൂജ്യമായിരിക്കും കൂടാതെ നിങ്ങൾ ID VDS കാരക്ടറിസ്റ്റിക്സിന്റെ ഒറിജിനിൽ പ്രവർത്തിക്കും അത് ഡീപ് ട്രയോഡ് മേഖലയിലായിരിക്കും ഈ വോൾട്ടേജ് ഈ വേർതിരിവ് കൂടുന്നതിനനുസരിച്ച് ഇത് സാച്ചുറേഷൻ മേഖലയിലേക്ക് പോകുന്നു ഈ വേർതിരിവ് VGS VT കവിയുന്നുവെങ്കിൽ അത് സാച്ചുറേഷൻ മേഖലയിലായിരിക്കും അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള മറ്റൊരു മാർഗം ഗേറ്റ് വോൾട്ടേജിന് താഴെയായി പോകുന്ന ഡ്രെയിൻ വോൾട്ടേജാണ് കാരണം VT പോസിറ്റീവ് ആണ് അതിനാൽ VD ഗേറ്റ് വോൾട്ടേജിനേക്കാൾ വലുതായിരിക്കണം നമ്മുടെ ഉദാഹരണത്തിൽ നമ്മൾ VT 1 V പരിഗണിക്കുന്നു അതിനാൽ അതിനാൽ VG 3 V ആണെങ്കിൽ ഇതിനർത്ഥം ഡ്രെയിൻ വോൾട്ടേജ് 2 V ൽ കൂടുതലായിരിക്കണം ഇത് ഗേറ്റ് വോൾട്ടേജിന് താഴെയാകാം പക്ഷേ ത്രെഷോൾഡ് വോൾട്ടേജിനേക്കാൾ ഒന്ന് കൂടുതൽ ആകരുത് അതിനാൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള മറ്റൊരു മാർഗമാണിത് നിങ്ങൾ ഇവ പുനക്രമീകരിക്കുകയാണെങ്കിൽ VGD VT യേക്കാൾ കുറവായിരിക്കണമെന്നും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള മറ്റൊരു മാർഗമാണ് ഒരേ ബന്ധത്തിന്റെ പുനക്രമീകരണം മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഗേറ്റ് ഡ്രെയിൻ വോൾട്ടേജ് VT യേക്കാൾ ചെറുതായിരിക്കണം ഇവയെല്ലാം ഒരേ കാര്യത്തിന്റെ പുനരാരംഭമാണ് എന്നാൽ സർക്യൂട്ട് കോൺഫിഗറേഷനെ ആശ്രയിച്ച് ഈ മൂന്ന് ബന്ധങ്ങളിൽ ഒന്ന് മറ്റുള്ളവയേക്കാൾ ഉപയോഗിക്കാൻ എളുപ്പമാണ് അതിനാൽ ഇത് ഒരു വശമാണ് കാരണം നമുക്ക് ഇതിനകം ഉള്ള സർക്യൂട്ടുകളുമായി ബന്ധപ്പെട്ട് ഞാൻ ഇത് ചർച്ചചെയ്യാൻ പോകുന്നു ആദ്യത്തെ സർക്യൂട്ട് ഡ്രെയിനിൽ സെൻസിംഗ് ചെയ്ത് ഗേറ്റിലേക്ക് ഫീഡ്ബാക്ക് നൽകുന്നു ഇതാണ് നമുക്ക് ഉള്ളത് ഫീഡ്ബാക്കിന്റെ അർത്ഥവും ലളിതമായ വൈവിധ്യവും ഗേറ്റിലേക്ക് ഡ്രെയിനേജ് ബന്ധിപ്പിക്കുക എന്നതായിരുന്നു ഇത് സാച്ചുറേഷൻ മേഖലയിലായിരിക്കുമെന്ന് നമുക്കറിയാം കാരണം ത്രെഷോൾഡ് വോൾട്ടേജ് പോസിറ്റീവ് ആണ് അതിനർത്ഥം VD VG VT യേക്കാൾ കൂടുതലാണ് കാരണം ഈ സാഹചര്യത്തിൽ VD VG യ്ക്ക് തുല്യമാണ് അതിനാൽ ഇത് സാച്ചുറേഷൻ മേഖലയിലായിരിക്കും ഇപ്പോൾ ചില ആക്റ്റിവിറ്റി ചോദ്യങ്ങളിൽ നിങ്ങൾ കണ്ടതോ മുമ്പത്തെ പാഠങ്ങളിലൊന്നിൽ ചർച്ച ചെയ്തതോ ആയ മറ്റൊരു വോൾട്ടേജ് സോഴ്സ് ആണ് അതിനാൽ ഞാൻ Vx എന്ന് വിളിക്കാം അപ്പോൾ VD യും VG യും ഒന്നല്ലെന്ന് നിങ്ങൾ കാണുന്നു VD VG Vx VD VG VT യേക്കാൾ വലുതായിരിക്കണം അതിനാൽ ഈ രണ്ടിൽ നിന്ന് Vx ഈ VT യേക്കാൾ വലുതായിരിക്കണമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഡ്രെയിനിലേക്ക് വലതുവശത്തുള്ള പോസിറ്റീവ് പൊളാരിറ്റി ഉപയോഗിച്ചാണ് ഞാൻ ഇത് കാണിച്ചത് ഇപ്പോൾ ഈ Vx നെഗറ്റീവ് ആകാം പക്ഷേ ഇത് ഒരു ത്രെഷോൾഡ് വോൾട്ടേജിനേക്കാൾ നെഗറ്റീവ് ആകരുത് Vx 0 5V ആണെങ്കിൽ ഇത് സാച്ചുറേഷൻ മേഖലയിലായിരിക്കും പക്ഷേ 1 5 V ആണെങ്കിൽ ഇത് ട്രയോഡ് മേഖലയിലേക്ക് പോകും അതിനാൽ ഈ പ്രത്യേക സർക്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത് എല്ലാ സാഹചര്യങ്ങളിലും ശരിയാണ് കാരണം ഉദാഹരണമായി ബയസ് ചെയ്യാനായി മാത്രം ഈ സാഹചര്യത്തിൽ മറ്റൊന്നും ബന്ധിപ്പിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ ഡ്രെയിനിലേക്ക് മറ്റൊന്നും ബന്ധിപ്പിച്ചിട്ടില്ല എന്നാൽ നിങ്ങൾ ഇത് ചില സ്മാൾ സിഗ്നൽ ഇൻക്രെമെന്റൽ പ്രവർത്തനമാക്കി മാറ്റുമ്പോൾ ഡ്രെയിനിലേക്ക് എന്തെങ്കിലും ബന്ധിപ്പിക്കും അതിനാൽ നിങ്ങൾ സാച്ചുറേഷൻ മേഖലയെ പ്രത്യേകം വിലയിരുത്തണം അതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഫീഡ്ബാക്ക് ശരിയായ അർത്ഥത്തിൽ ആയിരിക്കണം കൂടാതെ ട്രാൻസിസ്റ്റർ ഒരു നല്ല ആംപ്ലിഫയർ പോലെ പെരുമാറുന്നതിന് സാച്ചുറേഷൻ ആയിരിക്കണം ഡ്രെയിനിൽ സെൻസിംഗ് ചെയ്ത് സോഴ്സിലേക്ക് ഫീഡ്ബാക്ക് നൽകുന്ന ഒരു ഉദാഹരണം ഞാൻ പരിഗണിക്കാം നമുക്ക് MOS ട്രാൻസിസ്റ്റർ ഉണ്ട് ഡ്രെയിനിൽ നിന്ന് സെൻസിംഗ് ചെയ്യാൻ നമ്മൾ ഒരു കറന്റ് സോഴ്സ് I0 ബന്ധിപ്പിക്കുന്നു MOS ട്രാൻസിസ്റ്റർ വഴിയുള്ള കറന്റ് ആണ് ഡ്രെയിൻ കറന്റ് ID നമുക്ക് ഗേറ്റ് വോൾട്ടേജ് VG0 ഉണ്ട് കൂടാതെ പ്രതികൂലമായ വർദ്ധനവുള്ള ചില ബ്ലോക്ക് ഉപയോഗിച്ച് ഫീഡ്ബാക്ക് ലൂപ്പ് പൂർത്തിയാക്കുന്നു ഞാൻ ഈ പൊളാരിറ്റി ഉള്ള ഒരു ഓപ് ആമ്പ് ഉപയോഗിക്കും ഇത് ട്രാൻസിസ്റ്ററിനെ ചുറ്റിപ്പറ്റിയുള്ള നെഗറ്റീവ് ഫീഡ്ബാക്ക് നിലനിർത്തുന്നുവെന്ന് നമ്മൾ നേരത്തെ കണ്ടു അതുപോലെ തന്നെ ഇത് പൊതുവേ സംഭവിക്കുന്നു ഈ പോയിന്റ് ചില നിശ്ചിത വോൾട്ടേജുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഞാൻ ആ VD0 എന്ന് വിളിക്കട്ടെ അതിനാൽ ഇപ്പോൾ ഇതിന് ചുറ്റുമുള്ള നെഗറ്റീവ് ഫീഡ്ബാക്ക് കാരണം ട്രാൻസിസ്റ്ററിലൂടെയുള്ള വൈദ്യുതധാര I0 ആയിരിക്കും ഗേറ്റ് സോഴ്സ് വോൾട്ടേജിന്റെ ഉചിതമായ മൂല്യം ഉള്ളപ്പോഴും അത് എങ്ങനെ സംഭവിക്കും ഇപ്പോൾ ട്രാൻസിസ്റ്റർ സാച്ചുറേഷനിൽ ആണെന്ന് കരുതുക ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എന്നത് ത്രെഷോൾഡ് വോൾട്ടേജ് പ്ലസ് രണ്ടു ഗുണം ഡ്രെയിൻ കറന്റിനെ കറന്റ് ഘടകം കൊണ്ട് ഹരിക്കുന്നതിന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും അതിനാൽ ഇപ്പോൾ സോഴ്സിലെ വോൾട്ടേജ് VG0 മൈനസ് ഈ വോൾട്ടേജിൽ VGS ആയിരിക്കും അതായത് VG0 VT 2I0nCox ഇപ്പോൾ ഇവിടെ ഡ്രെയിനേജ് വോൾട്ടേജ് ഒപ് ആമ്പ് ഇൻപുട്ടുകൾ ഷോർട് ആണെന്ന് മനസിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മൂല്യം മനസിലാക്കാൻ കഴിയും കാരണം ഒപ് ആമ്പ് നെഗറ്റീവ് ഫീഡ്ബാക്കിലാണ് അതിനാൽ ഈ രണ്ട് ഇൻപുട്ടുകളും ഒരേ വോൾട്ടേജിലാണ് അതിനാൽ ഡ്രെയിൻ വോൾട്ടേജ് VD0 ആണ് ഇപ്പോൾ ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ മേഖലയിലാണോ എന്ന് നിങ്ങൾ എങ്ങനെ സ്ഥിരീകരിക്കും ഡ്രെയിൻ വോൾട്ടേജിനെ ഗേറ്റ് വോൾട്ടേജുമായി താരതമ്യം ചെയ്യുക അല്ലെങ്കിൽ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജുമായി താരതമ്യം ചെയ്യുക ഈ സാഹചര്യത്തിൽ ഡ്രെയിൻ വോൾട്ടേജിനെ ഗേറ്റ് വോൾട്ടേജുമായി താരതമ്യം ചെയ്യുന്നത് എളുപ്പമാണ് ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ മേഖലയിലായിരിക്കാൻ VD0 നേക്കാൾ വലുതായിരിക്കണമെന്ന് നമ്മൾക്കറിയാം അതിനാൽ ഈ പ്രത്യേക സർക്യൂട്ടിൽ ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ ഉണ്ടോ എന്ന് തീരുമാനിക്കുന്നത് VD0 VG0 എന്നിവയുടെ മൂല്യങ്ങളാണ് ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ നിലനിർത്തുന്നതിനായി നിങ്ങൾ അവ ഉചിതമായി തിരഞ്ഞെടുക്കണം തീർച്ചയായും ട്രാൻസിസ്റ്റർ ട്രയോഡ് മേഖലയിലായിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സർക്യൂട്ടുകൾ ഉണ്ട് ട്രാൻസിസ്റ്റർ ട്രയോഡ് മേഖലയിൽ തുടരുന്നതിന് വീണ്ടും ഇവയുടെ മൂല്യങ്ങൾ ഉചിതമായി തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അതിനാൽ ചുരുക്കത്തിൽ നിങ്ങൾ ഒരു ട്രാൻസിസ്റ്ററിനെ ഒരു സ്ഥിരമായ വൈദ്യുതധാരയിൽ ബയസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ് സ്ഥാപിക്കുകയാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ലഭിക്കുന്നതിന് ലൂപ്പിനെ എങ്ങനെ നിർമ്മിക്കാമെന്ന് നമ്മൾക്കറിയാം ഒടുവിൽ സർക്യൂട്ടിൽ കൃത്യമായ ഡ്രെയിൻ കറന്റ് ഒഴുകുന്ന വിധത്തിൽ സർക്യൂട്ട് മാറും ഡ്രെയിൻ കറന്റ് ആവശ്യമുള്ള കറന്റിനേക്കാൾ കൂടുതലാണെങ്കിൽ എങ്ങനെയെങ്കിലും ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് കുറയ്ക്കണം ഡ്രെയിൻ കറന്റ് ആവശ്യമുള്ള വൈദ്യുതധാരയേക്കാൾ കുറവാണെങ്കിൽ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് വർദ്ധിക്കണം അതിനാൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് അത് ഉറപ്പാക്കുന്നു എന്നാൽ തീർച്ചയായും നെഗറ്റീവ് ഫീഡ്ബാക്ക് കാര്യങ്ങൾ ഏത് ദിശയിൽ വ്യത്യാസപ്പെടണമെന്ന് മാത്രമേ നിങ്ങളോട് പറയൂ സാച്ചുറേഷൻ മേഖലയിൽ ട്രാൻസിസ്റ്റർ നിലനിർത്തുന്നതിന് വോൾട്ടേജുകളുടെ കേവല മൂല്യങ്ങളും പ്രധാനമാണ് നിങ്ങൾ അത് ഉചിതമായി തിരഞ്ഞെടുക്കണം നെഗറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ് വിവിധ മാർഗങ്ങളിലൂടെ പൂർത്തിയാക്കാൻ കഴിയും ഓരോ സാഹചര്യത്തിലും നിങ്ങൾ പ്രത്യേകം പരിശോധിച്ച് ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ ആണെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്